ഈ അധ്യായത്തിൽ ക്രാക്ക് ഇനിസേഷനും ലൈഫ് എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒരു ഫാറ്റിഗ്ഗ് ക്രാക്ക് ഗ്രോത്തിനായി പാരീസ് da ബൈ dN ഡെൽറ്റ കെ എന്നിവയുമായി ബന്ധപ്പെട്ട വളരെ മനോഹരമായ എംപിരിക്കൽ റിലേഷൻ നൽകി നമ്മൾ അതിനെ പാരീസ് നിയമം എന്ന് വിളിക്കുന്നു ഇത് ഫ്രാക്ചർ മെക്കാനിക്സിന് വളരെ പ്രധാനപ്പെട്ട സംഭാവനയാണെന്ന് ഞാൻ പറഞ്ഞു വാസ്തവത്തിൽപാരീസിന്റെ സംഭാവന കണ്ടെത്തുമ്പോൾ മാത്രം ഡിസൈനർമാർ LEFM ന്റെ ആശയങ്ങൾ ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിച്ചു കാരണം അത് അവർക്ക് ഒരു മെക്കാനിസം പ്രായോഗികമായി നടപ്പാക്കാനും സ്ട്രക്ച്ചർ സുരക്ഷിതമാണോ അല്ലയോ എന്ന് കണ്ടെത്താനും ഫാറ്റിഗ്ഗ് കാരണം ക്രാക്ക് എങ്ങനെ വ്യാപിക്കുന്നുവെന്ന് മനസിലാക്കാനും കഴിഞ്ഞു ഞാൻ സൂചിപ്പിച്ചു ഇത് വളരെ സങ്കീർണ്ണമായ പ്രതിഭാസമാണ് ക്രാക്ക് ഗ്രോത്തിൽ പരിസ്ഥിതിക്ക് വളരെ പ്രധാന പങ്കുണ്ട് പാരീസ് നിയമത്തിന്റെ ചാതുര്യം എന്തെന്നാൽ ക്രാക്ക് എങ്ങനെ വളരുന്നു എന്നതിന്റെ കേർണൽ അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും നോക്കുകയും ഒരു എംപിരിക്കൽ റിലേഷനിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഒരു എംപിരിക്കൽ റിലേഷനിലും എത്തുകയില്ല യഥാർത്ഥ പരീക്ഷണത്തിൽ നിരീക്ഷിച്ച വിവിധ പ്രതിഭാസങ്ങളെ വിശദീകരിക്കാൻ പാരീസ് നിയമത്തിന്റെ മോഡിഫിക്കേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവെന്ന് ഇന്ന് ചർച്ചയിൽ നാം കാണും വാസ്തവത്തിൽ ഈ അധ്യായത്തിന് മുമ്പ് ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് സോണിന്റെ മോഡലിംഗ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു പരീക്ഷണങ്ങളിൽ കാണുന്ന പ്രതിഭാസങ്ങൾ മനസിലാക്കാൻ ആ അറിവ് ഉപയോഗപ്രദമാകും ക്രാക്ക് ക്ലോഷർ ഡിസൈനറുടെ സമീപനം അതുകൊണ്ടാണ് ആ അധ്യായം നേരത്തെ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ എൽബറിന്റെ വളരെ പ്രധാനപ്പെട്ട സംഭാവന നമ്മൾ ഏറ്റെടുക്കും 1970 ലാണ് ഇത് ചെയ്തത് ക്രാക്ക് ക്ലോഷർ എന്ന ആശയം അവതരിപ്പിച്ചു അദ്ദേഹം നിരീക്ഷിച്ചത് സൈക്ലിക്ക് ടെൻഷനിൽ വളരുന്ന ഒരു ഫാറ്റിഗ്ഗ് ക്രാക്ക് പരമാവധി ലോഡിന്റെ പകുതിയോളം സ്വയം അടയ്ക്കും ഇത് പൂർണ്ണമായും ഒരു പരീക്ഷണ നിരീക്ഷണമായിരുന്നു എക്സ്പിരിമെന്റൽ ഒബ്സെർവേഷൻ അടിസ്ഥാനമാക്കി അദ്ദേഹം വളരെ രസകരമായ ഒരു ഫലത്തിൽ എത്തി റാൻഡം ലോഡിംഗിന് കീഴിലുള്ള ക്രാക്ക് ഗ്രോത്ത് കാൽക്കുലേഷനുകൾക്ക് ഈ ഇഫക്റ്റ് പ്രാധാന്യമർഹിക്കുന്നു നോക്കൂനിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് സ്ട്രക്ച്ചറിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള ലോഡിംഗാണ് ഫാറ്റിഗ്ഗ് നിങ്ങൾക്ക് സ്ഥിരമായി വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് ഉണ്ടാകും ആക്ച്വൽ ലോഡ് സ്പെക്ട്രം കണ്ടെത്തുക എന്നതാണ് ഒരു ബുദ്ധിമുട്ട് ഇത് ലളിതമല്ല രീതിശാസ്ത്രങ്ങൾ ലഭ്യമാണ് നിങ്ങൾ ലിറ്ററേച്ചർ പഠിക്കണം തുടർന്ന് ആക്ച്വൽ ലോഡ് സ്പെക്ട്രം മാത്രം കണക്കാക്കുക അതിനാൽ സ്ഥിരമായി നിങ്ങൾക്ക് വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗ് ഉണ്ടാകും മോഡലിംഗ് കാഴ്ചപ്പാടിൽ കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗിന് കീഴിൽ ക്രാക്ക് എങ്ങനെ വളരുന്നുവെന്ന് നമുക്ക് പഠിക്കാം നിങ്ങൾക്ക് അറിവ് ഫീൽഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ റാൻഡം ലോഡിംഗ് നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് നിങ്ങൾ റാൻഡം ലോഡിംഗിനായി പോയാൽ നിങ്ങളുടെ ലൈഫ് എസ്റ്റിമേഷൻ കാൽക്കുലേഷനിലേക്ക് ക്രാക്ക് ക്ലോഷർ നിരീക്ഷണങ്ങൾ കൊണ്ടുവരണം നമ്മൾ കണ്ടെത്തേണ്ടത് ക്രാക്ക് മാക്സിമം ലോഡിന്റെ പകുതിയോളം അടയ്ക്കുന്നു എന്നതാണ് കൂടാതെ ക്രാക്ക് എങ്ങനെ തുറക്കും പരീക്ഷണത്തിലെ ബുദ്ധിമുട്ട് എന്താണ് പ്രായോഗികമായി ക്രാക്ക് അതിന്റെ മുൻവശത്ത് ഒരേ പോലെ തുറക്കുന്നില്ല അടച്ചതിൽ നിന്ന് തുറക്കുന്നതിലേക്ക് കണ്ടിന്വസ് ട്രാൻസിഷൻ നടക്കുന്നു ഇത് ഓപ്പണിംഗ് സ്ട്രെസിന്റെ എക്സ്പിരിമെന്റൽ ഡിറ്റർമിനേഷൻ നിർണ്ണയം പ്രയാസകരമാക്കുന്നു നോക്കൂ നിങ്ങൾ പരീക്ഷണത്തിലൂടെ ചില നിരീക്ഷണങ്ങൾ നടത്തി ഈ വശങ്ങളെ ഒരു ന്യൂമെറിക്കൽ മോഡലിൽ മാതൃകയാക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂമെറിക്കൽ മോഡൽ വികസിപ്പിക്കാൻ കഴിയില്ല അതിനാൽ തുടക്കത്തിൽ അത്തരം സങ്കീർണ്ണ പ്രതിഭാസങ്ങൾക്കായി നിങ്ങൾക്ക് എക്സ്പെരിമെന്റൽ ഒബ്സെർവേഷൻ ആവശ്യമാണ് അതിനാൽ ക്രാക്ക് പൂർണ്ണമായും തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കാണാമെന്നതാണ് ഒരു ബുദ്ധിമുട്ട് ഒരു സ്പെസിമെൻ ക്രാക്ക് ക്ലോഷർ ഫിനോമിന പ്രദർശിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യും ആളുകൾക്ക് അത് നോക്കുന്നതിനുള്ള രീതികളും ഉണ്ട് ഏറ്റവും ലളിതമായ മാർഗം ലോഡ് ഡിഫ്ലക്ഷൻ കർവ് നേടുക എന്നതാണ് അതിനാൽ ക്രാക്ക് ക്ലോഷർ അനുഭവപ്പെടുന്ന ഒരു ക്രാക്ക്ഡ് ബോഡിക്ക് നിങ്ങൾക്ക് ലോഡ് ഡിഫ്ലക്ഷൻ കർവ് ലഭിക്കുകയാണെങ്കിൽ അത് ബിലിനിയർ ആണ് ഇതാണ് നിരീക്ഷണം നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് അപ്പ്ലൈഡ് സ്ട്രെസ് എന്നിവയുണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ബന്ധം ബിലിനിയർ ആണ് അതിനാൽ നിങ്ങൾക്ക് പ്രാരംഭത്തിൽ നിന്ന് പിന്നീടുള്ള ഭാഗത്തേക്ക് ഇനിഷ്യൽ സ്ലോപ്പ് ചേയിഞ്ചസ് ഉണ്ട് തുടക്കത്തിൽ ഇത് കൂടുതൽ കഠിനമാണ് ഇനിഷ്യൽ സ്ലോപ്പ് നിർണ്ണയിക്കുന്നത് ക്ലോസ്ഡ് ക്രാക്ക് ആണ് അതിനാൽ ക്രാക്ക് പെരുമാറുന്നത് അതിന്റെ നീളം ചെറുതാകുന്നത് അനുസരിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു സ്ലോപ്പ് ഉണ്ട് ഉയർന്ന ലോഡുകളിൽ ക്രാക്ക് പൂർണ്ണമായും തുറന്നതിനാൽ സ്ലോപ്പും വ്യത്യസ്തമാണ് അതിനാൽ ഒരു ഫാറ്റിഗ്ഗ് ക്രാക്ക്ഡ് സ്പെസിമെനിൽ ബിലിനിയറായി ഒരു സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് സ്വഭാവം അനുഭവപ്പെടുകയാണെങ്കിൽ അത് വീണ്ടും മോഡലാണ് പ്രായോഗികമായി ഇതിൽ നിന്ന് ഇതിലേക്ക് നിങ്ങൾക്ക് സുഗമമായ വിവർത്തനം ലഭിക്കും അതും ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടത്തെ ചോദ്യം ക്രാക്ക് എപ്പോൾ അടയ്ക്കും എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും എപ്പോഴാണ് ക്രാക്ക് തുറക്കുന്നത് ഇത് പരീക്ഷണാത്മകമായി അളക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ആളുകൾ അതിനുള്ള വിവിധ വഴികൾ കണ്ടെത്തി ഇത് വിവരിക്കുന്നതിനുള്ള ഒരു മാർഗ്ഗം ഈ സ്ട്രെസ്സിൽ നിങ്ങൾ പറയുന്നു സ്ലോപ്പിന് ട്രാൻസിലേഷൻ ഉണ്ടാകുമ്പോൾ ക്രാക്ക് പൂർണ്ണമായും തുറക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു വളഞ്ഞ ഭാഗം നേരെയാകുമ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ക്രാക്ക് അടച്ചിരിക്കുന്നു ക്രാക്കിന്റെ ഒരു ഭാഗം അടച്ചിരിക്കുന്നു അതിനാൽ ഇത് എസ്റ്റിമേഷൻ ചെയ്യാനുള്ള ഒരു മാർഗമാണ് നിങ്ങൾക്കറിയാം ഈ ഘട്ടത്തിൽ ക്രാക്ക് ക്ലോഷറിന്റെ ചരിത്രം എന്തായിരുന്നുവെന്ന് നോക്കുന്നതും നന്നായിരിക്കും തുടക്കത്തിൽ ക്രാക്ക് ക്ലോഷർ സംഭവിക്കുമെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നില്ല എൽബറാണ് ഇത് ചെയ്തത് 1983 ൽ കറന്റ് കൺടെൻസിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനം ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നു സിഡ്നിയിലെ ന്യൂ സൌത്ത് വെയിൽസ് ഓസ്ട്രേലിയ എന്ന സർവകലാശാലയിൽ ഞാൻ ബിരുദ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ക്രാക്ക് ക്ലോഷർ പ്രതിഭാസത്തിന്റെ യഥാർത്ഥ കണ്ടെത്തൽ നടത്തിയത് വർഷങ്ങളുടെ നേരിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിരിക്കുന്നതിനുപകരം ഇത് ഒരു ഫാറ്റിഗ്ഗ് ക്രാക്ക്ഡ് പ്ലേറ്റ് മുറിക്കുമ്പോൾ നടത്തിയ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഒബ്സെർവേഷൻ ആയിരുന്നു നോക്കൂ ഇത് വളരെ പ്രധാനമാണ് നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ നിങ്ങൾ വളരെ ചിട്ടയായ പഠനം നടത്തുമെങ്കിലും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നില്ല ഇവിടെ ഇത് ഒരു ചിട്ടയായ പഠനമല്ലെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു അദ്ദേഹം രസകരമായ ഒരു നിരീക്ഷണത്തിന് അവസരമൊരുക്കി അദ്ദേഹം ഒരു നല്ല പരീക്ഷണകാരൻ ആയിരുന്നു അദ്ദേഹം വിശദാംശങ്ങൾ നഷ്ടപ്പെടുത്തിയില്ല നോക്കൂ ഇത് വളരെ പ്രധാനമാണ് എക്സ്പിരിമെന്റലിസ്റ്റ് ജാഗ്രത പാലിക്കണം നിങ്ങളുടെ അടിസ്ഥാന ധാരണയിൽ നിന്ന് വ്യതിചലിക്കുന്ന എന്തും നോക്കുക അത് റെക്കോർഡു ചെയ്യുക സൂക്ഷ്മമായി സത്യസന്ധതയോടെ കാരണം നിങ്ങൾ നിരീക്ഷിക്കുന്നവയെല്ലാം മൊത്തത്തിൽ റിപ്പോർട്ടുചെയ്യുകയാണെങ്കിൽ പുതിയ സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കാൻ കഴിയും അതാണ് ക്രാക്ക് ക്ലോഷർ ആശയത്തിൽ സംഭവിച്ചത് വാസ്തവത്തിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് സമൂഹം അംഗീകരിച്ചില്ല അതും നിരസിക്കപ്പെട്ടു അതിനുള്ള അദ്ദേഹത്തിന്റെ ഉദ്ധരണി ഞാൻ വായിക്കാം അദ്ദേഹം പറയുന്നു ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം തുടർന്നുള്ള മാസങ്ങളിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല ഫ്രാക്ചർ മെക്കാനിക്സിൽ നിലവിലുള്ള പല പഠിപ്പിക്കലുകളെയും ഞാൻ വിരുദ്ധമാക്കുമെന്ന് എന്റെ തീസിസിലേക്ക് ആ കണ്ടെത്തലിൽ എഴുതി അല്ലെങ്കിൽ വേരിയബിൾ ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗിന് കീഴിലുള്ള ക്രാക്ക് ഗ്രോത്തിന്റെ സങ്കീർണ്ണത പരിഹരിക്കുന്നതിന് ആ പ്രതിഭാസം എത്രത്തോളം സഹായിച്ചു രസകരമായ കാര്യം അടുത്ത കുറച്ച് വാക്യങ്ങൾ ഇത് ഇതു പോലെ പറയുന്നു ആദ്യത്തെ അമേരിക്കൻ നിരൂപകൻ എന്റെ തീസിസ് നിരസിച്ചതിനുശേഷം എന്റെ ഗവേഷണം തുടരാൻ ഞാൻ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയിലേക്ക് പോയി കഥ ഇതുപോലെ പോകുന്നു നിങ്ങൾക്കറിയാമോ പാവം അവൻ വളരെ നല്ല നിരീക്ഷണം കണ്ടെത്തി അദ്ദേഹം റിപ്പോർട്ടുചെയ്തപ്പോൾ പരമ്പരാഗത ചിന്താഗതിക്ക് ക്രാക്ക് അടയ്ക്കാനാകുമെന്ന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ അവർ പ്രബന്ധം നിരസിച്ചു പിന്നെ അദ്ദേഹം തുടർന്നു അദ്ദേഹം നാസ ലാംഗ്ലി ഗവേഷണ കേന്ദ്രത്തിൽ ചേർന്നു ഇപ്പോൾ ഇത് ഒരു സ്വീകാര്യമായ പരിശീലനമാണ് വാസ്തവത്തിൽ ഞാൻ വായിക്കുന്നത് കറൻന്റ് കൺടെൻസിൽ നിന്നാണ് ഇത് പറയുന്നത് ഈ ആഴ്ചയിലെ സൈറ്റേഷൻ ക്ലാസിക് ആണ് ഇത് പ്രസിദ്ധീകരിച്ചത് 1983 ഡിസംബർ 12 ലാണ് അവിടെ അദ്ദേഹത്തിന്റെ പ്രബന്ധം സിഗ്നിഫിക്കൻസ് ഓഫ് ഫാറ്റിഗ്ഗ് ക്രാക്ക് ക്ലോഷർ ഡാമേജ് ടോളറൻസ് ഇൻ എയർ ക്രാഫ്റ്റ് സ്ട്രക്ച്ചർ പ്രസിദ്ധീകരിച്ച ASTM STP 486 എന്ന പ്രബന്ധത്തിൽ 240 എന്ന ഹൈ സൈറ്റേഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഓർമിക്കുന്ന 240 സൈറ്റേഷൻസ് അതാണ് ഒരു സൈറ്റേഷൻ ക്ലാസിക് ആയി ഇത് ചർച്ച ചെയ്യപ്പെടുന്നു അത് ആദ്യം നിരസിക്കപ്പെട്ടു ഇത് ഒരു സൈറ്റേഷൻ ക്ലാസിക്കായി മാറി ക്രാക്ക് ക്ലോഷർ ആശയം എന്തിനെക്കുറിച്ചാണെന്ന് നമ്മൾ കൂടുതൽ കാണും അതിനാൽ ഇത് ഞാൻ സൂചിപ്പിച്ചത് വീണ്ടും സംഗ്രഹിച്ചിരിക്കുന്നു 1970 ൽ എൽബർ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്ത എക്സ്പിരിമെന്റൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ തെളിയിച്ചു ഒരു ഫാറ്റിഗ്ഗ് ക്രാക്ക് പൂജ്യം മുതൽ ടെൻഷൻ ലോഡിംഗ് R വരെ പ്രചരിപ്പിക്കുന്നു അതായത് R ടു R ഇക്വൽ ടു 0 സീറോ ലോഡിൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലിറ്റിലി ക്ലോസ്ഡ് ആയിരിക്കും ഈ നിരീക്ഷണം ഫാറ്റിഗ്ഗ് ക്രാക്ക് ഗ്രോത്തിന്റ പുതിയ പഠനത്തിലേക്ക് നയിച്ചു ഇനിഷ്യൽ ഹേസിറ്റേഷനു ശേഷം ആളുകൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തം തുടക്കത്തിൽ അംഗീകരിക്കുന്നില്ല ഒരിക്കൽ ഇത് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ ആളുകൾ ഇത് എങ്ങനെ മോഡൽ ആക്കാമെന്ന് പറയുന്നു ഈ നിരീക്ഷണത്തിന്റെ ആത്യന്തിക ഉപയോഗം നിങ്ങളുടെ ക്രാക്ക് ഗ്രോത്ത് കാൽക്കുലേഷൻ എങ്ങനെ പരിഷ്കരിക്കും എന്നതാണ് അവിടെ ഒരു ഡിസൈനർമാരുടെ സമീപനമുണ്ട് ഡിസൈനർമാരുടെ സമീപനം നമ്മൾ ആദ്യം കാണും അതിനാൽ അവർ ചെയ്തത് ക്രാക്ക് ക്ലോഷറിനു കാരണമായി ഡിസൈനർമാർ ഉപയോഗിക്കുന്ന പരിഷ്ക്കരിച്ച പാരീസ് നിയമം ഇനിപ്പറയുന്നു നോർമൽ പാരീസ് നിയമത്തിൽ da ബൈ dN ഇക്വൽ ടു C ഡെൽറ്റ K പവർ m ഉണ്ടായിരിക്കും ഇവിടെ ഡെൽറ്റ K എന്നത് ഡെൽറ്റ K ഇഫ്ക്റ്റീവ് ആയി ഉപയോഗിക്കുന്നു എന്താണ് ഡെൽറ്റ K ഇഫ്ക്റ്റീവ് എന്ന് നിങ്ങൾ എങ്ങനെ നിർവചിക്കും എനിക്ക് ഒരു സിനുസോയ്ഡൽ വേരിയേഷനുണ്ടെന്ന് കരുതുക എനിക്ക് K മാക്സും K മിനിമവും 0 ആണ് എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്ട്രെസ്സിൽ മാത്രം ക്രാക്ക് തുറക്കാൻ തുടങ്ങുന്നു പിന്നീട് നിങ്ങൾക്കറിയാം ക്രാക്ക് മാത്രമേ ഇഫക്റ്റീവ് ആകൂ K op യുടെ ഈ വാല്യൂവിൽ ക്രാക്ക് അവസാനിക്കുന്നു അതിനാൽ K മാക്സിനും K op ക്കും ഇടയിലാണ് ഇഫക്റ്റീവ് ഡെൽറ്റ K അതിനാൽ ഡെൽറ്റ K ഇഫക്റ്റീവ് ആയി എടുക്കുന്നതിലൂടെ ആളുകൾക്ക് ക്രാക്ക് ക്ലോഷർ ഫിനോമിനൻ ഉൾപ്പെടുത്താം ഡെൽറ്റ K എങ്ങനെ ഇഫക്റ്റീവ് ആയി കണ്ടെത്താം എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം അവിടെയാണ് വെല്ലുവിളി ഇത് ലളിതമായ ഒരു ജോലിയല്ല ആശയപരമായി ക്രാക്ക് സൈക്കിളിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ഇഫക്റ്റീവ് ആകൂ അതിനാൽ നിങ്ങൾ നോക്കൂ ആക്ച്വൽ ഡെൽറ്റ K എന്നതിനേക്കാൾ ഇഫക്റ്റീവ് ഡെൽറ്റ K എന്താണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തണം ഡെൽറ്റ കെ എങ്ങനെ ഫലപ്രദമാക്കാം നിരവധി മോഡലുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആളുകൾ പരീക്ഷണം നടത്തി അത് കാൽക്കുലേറ്റ് ചെയ്തു സ്ട്രെസ് റേഷ്യോ R ന്റെ ഇഫക്ട് നിങ്ങൾ കൊണ്ടുവരേണ്ടിവരും R ന്റെ ഫങ്ക്ഷൻ എന്ന നിലയിൽ എങ്ങനെ ഡെൽറ്റ K ഇഫക്റ്റിവ് മാറുന്നു അതിനാൽ ഗവേഷണം ഇങ്ങനെയാണ് അവർ എങ്ങനെയാണ് ഡെൽറ്റ K ഇഫക്റ്റിവ് വികസിപ്പിച്ചതെന്ന് നമുക്ക് കാണാം ക്റ്റിവ് എന്നത് K മാക്സ് മൈനസ് K ഓപ്പണിംഗ് ആണ് ഇവിടെ K op എന്നത് KI യുടെ വാല്യൂവാണ് സൈക്കിളിൽ ക്രാക്ക് പൂർണ്ണമായും തുറക്കുന്നു ഇത് വിലയിരുത്താൻ പ്രയാസമാണ് നമ്മൾ അത് ചെയ്യാൻ നമ്മുക്ക് ക്രാക്ക് ഗ്രോത്ത് കാൽക്കുലേഷനിൽ ക്രാക്ക് ക്ലോഷർ ഉൾപ്പെടുത്തണം അവിടെ എംപിരിക്കൽ റിലേഷൻസ് റിപ്പോർട്ടു ചെയ്തു ക്രാക്ക് ക്ലോഷർ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് എൽബർ ക്രാക്ക് ക്ലോഷർ സ്ട്രൈഷൻ പാറ്റേണിന്റെ ഷേയിപ്പ് ബാധിക്കുമെന്ന് കാണിക്കുന്നതിന് ഫ്രാക്റ്റോഗ്രാഫിക് തെളിവുകളും നൽകി നോക്കൂ നിങ്ങൾ ചരിത്രം നോക്കുകയാണെങ്കിൽ കണ്ടെത്തൽ റിപ്പോർട്ട് ചെയ്യുന്നവർ അതെ അയാളുടെ കണ്ടെത്തൽ ശരിയാണ് എന്ന് ന്യായീകരിക്കേണ്ടതുണ്ട് അവൻ ആ ഗൃഹപാഠം ചെയ്യുന്നില്ലെങ്കിൽ ആ ആശയം അംഗീകരിക്കപ്പെടുന്നില്ല ഡഗ്ഡേൽ മോഡലിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു അദ്ദേഹം പരീക്ഷണം നടത്തിയെങ്കിലും ഫലം റിപ്പോർട്ട് ചെയ്തില്ല അതിനാൽ ഇനിഷ്യൽ സ്റ്റേജസിൽ ഡഗ്ഡേൽ മോഡൽ സ്വീകരിക്കരുതെന്ന് പരിശീലകർക്കിടയിൽ സംശയമുണ്ടായിരുന്നു ഹാനും റോസെൻഫീൽഡും എക്സ്പിരിമെന്റൽ എവിടെൻസ്സുകൾ നൽകി കഴിഞ്ഞാൽ ആളുകൾ ഡഗ്ഡേൽ മോഡ് ഉപയോഗിക്കാൻ തുടങ്ങി അതിനാൽ എൽബറിന്റെ കാര്യത്തിൽ പിന്നീട് ക്രാക്ക് ക്ലോഷർ ചെയ്ത തായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അത്തരമൊരു കാര്യം സംഭവിക്കുന്നുവെന്ന് കാണിക്കാൻ അദ്ദേഹം ഫ്രാക്റ്റോഗ്രാഫിക് തെളിവുകളും നൽകി ക്രാക്ക് ക്ലോഷർ ചെയ്യുമ്പോൾ ഡിഫോർമേഷൻ കാരണം സ്ട്രൈയേഷൻ പീക്ക് ഫ്ളാറ്റെൻഡ് ആകുന്നു എന്നതാണ് ഇതിന്റെ ഫലം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാന പ്രശ്നം ഫുള്ളി ഓപ്പൺഡ് ക്രാക്കിന് അനുയോജ്യമായ സ്ട്രെസ് ഇൻടെൻസിറ്റി ഫാക്ടർ എങ്ങനെ കണക്കാക്കാം എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ്രാക്ചർ ടഫ്നെസ്സിൽ നിന്ന് വ്യത്യസ്തമായി K ഓപ്പണിംഗ് ഒരു മെറ്റീരിയൽ കോൺസ്റ്റൻറ് അല്ല മറിച്ച് നിരവധി ഫാക്ടർസിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഇത് പ്രശ്നം ബുദ്ധിമുട്ടാക്കുന്നു വ്യത്യസ്ത അലോയ്കൾ വ്യത്യസ്ത ക്ലോഷർ സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്നു അതിനാൽ ഇത് ഒരു നിരീക്ഷണമാണ് അതിനാൽ നിങ്ങൾ കണ്ടെത്തുന്നതിന് ധാരാളം പരിശോധനകൾ നടത്തണം തന്നിരിക്കുന്ന ഒരു അലോയ്ക്ക് പോലും വ്യത്യസ്ത ലോഡിംഗ് റെജിമ്സിൽ ക്ലോഷർ ബിഹേവിയർ വ്യത്യസ്തമാണ് അതിനാൽ ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എൽബറിന്റെ പേപ്പർ ഉണ്ട് ഫാറ്റിഗ്ഗ് ക്രാക്ക് ഗ്രോത്ത് അണ്ടർ സൈക്ലിക്ക് ടെൻഷൻ 1970 ൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധമാണിത് എഞ്ചിനീയറിംഗ് ഫ്രാക്ചർ മെക്കാനിക്സിൽ ഇത് പ്രസിദ്ധീകരിച്ചു ഇത് 37 നും 45 നും ഇടയിലുള്ള വോളിയം നമ്പർ 2 ആണ് നിങ്ങൾ പോയി അദ്ദേഹം ഈ വർക്ക് എങ്ങനെ അവതരിപ്പിച്ചുവെന്ന് നോക്കാം കെഎഫ് നുള്ള എംപിരിക്കൽ റിലേഷൻസ് അതിനാൽ നിങ്ങൾ ഡെൽറ്റ k ഇഫക്റ്റീവ് കണ്ടെത്താനുള്ള എംപിരിക്കൽ റിലേഷൻസ് എന്താണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾക്കറിയാമോ എല്ലാ എയ്റോസ്പേസ് സ്ട്രക്ച്ചർകൾക്കും അലുമിനിയം വളരെ പ്രധാനമാണ് അതിനാൽ നിങ്ങൾക്ക് 2023 ടൈറ്റാനിയം ഉണ്ട് അതായത് T3 അലുമിനിയം എൽബർ റിപ്പോർട്ട് ചെയ്തു ഡെൽറ്റ K ക്ക് മുകളിലുള്ള ഡെൽറ്റ K 0 5 പ്ലസ് 0 4 R എന്ന് എഴുതാമെന്ന് ഇവിടെ R സ്ട്രെസ് റേഷ്യോ ആണ് അദ്ദേഹം 0 R റേയിഞ്ച്ന്റെ റിലേഷൻ നേടിയിരുന്നു R എന്നത് 0 ത്തിനും 0 7 നും ഇടയിലാണ് R ന്റെ ഈ റേയിഞ്ച് വിപുലീകരിച്ച മറ്റ് ഗവേഷകരും ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ് K ഇഫക്റ്റിവിന്റെ വാല്യൂ എന്ന് കണ്ടെത്തുന്നതിന് എന്തെങ്കിലും മാർഗം ആവശ്യമാണ് ആവശ്യമെങ്കിൽ എനിക്ക് അത് വലുതാക്കാനും കഴിയും അതിനാൽ ഇത് നിങ്ങൾക്കുള്ള ഇക്യുവേഷൻ ആണ് മറ്റൊരു ഗവേഷകൻ റിപ്പോർട്ടുചെയ്തത് നെഗറ്റീവ് R പരിഗണിക്കണമെങ്കിൽ അതേ അലോയ്ക്ക് ഇനിപ്പറയുന്ന ഫോർമുല ഉപയോഗിക്കണം ഇത് കുറച്ചുകൂടി വിശദമാണ് നമുക്കും ഇത് പരിശോധിക്കാം ഏത് വഴിയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ഇവിടെ കാണിക്കുക എന്നാൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻ എഴുതാം ഡെൽറ്റ കെ ഇഫക്റ്റിവ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ K ഇക്വൽ ടു 0 55 പ്ലസ് 0 33 R പ്ലസ് 0 12 R സ്ക്വായേർഡ് ആണ് ഇത് R എന്നത് മൈനസ് 1 മുതൽ 0 54 വരെ തുല്യമാണ് R മൈനസ് 1 നും 0 54 നും ഇടയിലാണ് നിങ്ങൾക്ക് മറ്റൊരു എക്സ്പ്രെഷൻ ഉണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എംപിരിക്കൽ റിലേഷൻസ് ലഭ്യമാണ് ക്രാക്ക് ക്ലോഷർ കറന്റ് ഫോക്കസ് അതിനാൽ ലിറ്ററേച്ചറിലേക്ക് നോക്കുക നിങ്ങൾ നൽകിയ അലോയ് കണ്ടെത്തുകഏത് എംപിരിക്കൽ റിലേഷൻ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്രാക്ക് ക്ലോഷർ എന്ന ആശയം ഉപയോഗിക്കാൻ കഴിയും ക്രാക്ക് ക്ലോഷറിന്റെ നിലവിലെ ഫോക്കസ് എന്താണ് കാരണം തുടക്കത്തിൽ ആളുകൾ ക്രാക്ക് ക്ലോഷർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല അവർ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ ആളുകളും അഡിഷണൽ വർക്കുകൾ ചെയ്തു ക്രാക്ക് ക്ലോഷർ ബിഹേവിയർനെയും ക്രാക്ക് ഗ്രോത്ത് റേറ്റിനെ ബാധിക്കുന്നതിനെയും അളക്കുന്നതിനും സ്വഭാവ സവിശേഷതകൾ പ്രവചിക്കുന്നതിനും വിവിധ ഗവേഷകർ വളരെയധികം പരിശ്രമിച്ചു ഈ ഗവേഷണത്തിന്റെ ഭൂരിഭാഗവും പരീക്ഷണാത്മക സ്വഭാവത്തിലാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ പ്രതിഭാസങ്ങൾ സങ്കീർണ്ണമാണ് അതിനാൽ തുടക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം എക്സ്പിരിമെന്റിലൂടെ എന്താണ് സംഭവിക്കുന്നത് അത്തരം ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ന്യൂമെറിക്കൽ മോഡലുകൾ വികസിപ്പിക്കാൻ കഴിയും എക്സ്പിരിമെന്റിലെ പ്രധാന ബുദ്ധിമുട്ട് എന്താണ് എക്സ്പിരിമെന്റിലെ പ്രധാന ബുദ്ധിമുട്ടുകളിലൊന്ന് തിക്ക് സ്പെസിമെനിൽ മധ്യഭാഗത്ത് ഡിസ്പ്ലേസ്മെന്റ് ഹിസ്റ്റോറിസിലൂടെ വിവരങ്ങൾ നേടുക എന്നതാണ് നോക്കൂ ഞാൻ ഇതിനകം സൂചിപ്പിച്ചു ക്രാക്ക് ഓപ്പണിംഗ് മുൻവശത്ത് യൂണിഫോം അല്ല അതിനാൽ എനിക്ക് ഒരു തിക്ക് സ്പെസിമെൻ ഉണ്ടോയെന്ന് നിങ്ങൾ ഉറപ്പാക്കണം അതിനിടയിലുള്ള ഭാഗം അത് തുറന്നിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് എക്സ്പിരിമെന്റൽ മെഷർമെന്റുകൾ ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ അത് കൂടുതൽ യാഥാർത്ഥ്യമാകൂ അത് ഒരു വെല്ലുവിളിയാണ് എളുപ്പത്തിൽ ആക്സസ്സു ചെയ്യാനാകാത്തതിനാൽ ഇത് വെല്ലുവിളിയാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ എഴുതാൻ കഴിയും നിങ്ങൾക്ക് എഴുതാൻ സമയം മതി ആകും എക്സ്പിരിമെന്റ ബുദ്ധിമുട്ടാണെന്ന് കണ്ടതിനാൽ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉചിതമായ സംഖ്യാ മോഡലുകൾ വികസിപ്പിക്കുന്നതിലാണ് നിലവിലെ ശ്രദ്ധ ഇത് മാത്രമല്ല T സ്ട്രെസിന്റെ ഫലം കണ്ടെത്താനും അവർ ആഗ്രഹിക്കുന്നു അതാണ് ഫോട്ടോലാസ്റ്റീഷ്യൻമാർക്കുള്ള സിഗ്മ നട്ട് x ക്രാക്ക് ടിപ്പ് സ്ട്രെസ് ഡിസ്പ്ലേസ്മെന്റ് ഫീൽഡുകൾ എന്നിവ ചർച്ച ചെയ്തപ്പോൾ ഇത് മനസിലാക്കാൻ നമ്മൾ ധാരാളം സമയം ചെലവഴിച്ചു അതിനാൽ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ K യിൽ മാത്രം പരിമിതപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല രണ്ടാമത്തെ ടേമിലേക്ക് പോകാനും അവർ ആഗ്രഹിക്കുന്നു ഫൈനൈറ്റ് എലെമെൻറ് മേത്തേഡ് ഉപയോഗിച്ചാണ് അത്തരമൊരു ശ്രമം നടത്തുന്നത് ഇത് റോയ്ചൌധരിയും ഡോഡ്സും അടുത്തിടെ റിപ്പോർട്ടുചെയ്തു ഇത് 2004 ലെ ഒരു പേപ്പറാണ് ഇത് ഞാൻ നിങ്ങൾക്കായി വായിക്കുമെന്ന് കരുതുന്നു ഇഫക്ട് ഓഫ് T സ്ട്രെസ് ഓൺ ഫാറ്റിഗ്ഗ് ക്രാക്ക് ക്ലോഷർ ഇൻ 3 D സ്മാൾ സ്കെയിൽ യിൽഡിങ് ഇത് റോയ്ചൌധരിയും R H ഡോഡ്സും ചേർന്നുള്ള പേപ്പറാണ് ഇത് 2004 ൽ പ്രസിദ്ധീകരിച്ച ഇന്റർനാഷണൽ ജേണൽ ഓഫ് സോളിഡ്സ് ആന്റ് സ്ട്രക്ചറിലാണ് നിങ്ങൾക്ക് പേപ്പറിന്റെ വിശദാംശങ്ങൾ കാണാൻ കഴിയും നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് എൽബർ എഴുതിയ സൈറ്റേഷൻ ക്ലാസിക്കിൽ വന്ന മറ്റൊരു കുറിപ്പ് പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അദ്ദേഹം ഇതുപോലെ പരാമർശിക്കുന്നു ഏതെങ്കിലും ഫിനോമിനൻന്റെ ഇനിഷ്യൽ ഡിസ്കവറി മുതൽ പ്രോഫിറ്റബിൾ ആപ്ലിക്കേഷൻ വരെയുള്ള സമയം പലപ്പോഴും ദൈർഘ്യമേറിയതാണ് ഈ ക്രാക്ക് ക്ലോഷർ സാഹചര്യത്തിൽ ന്യുമാറിക്കൽ ക്രാക്ക് ഗ്രോത്ത് കാല്കുലേഷനിൽ ക്രാക്ക് ക്ലോഷറിനെ ഉൾപ്പെടുത്തുന്നത് അക്ക്യൂറസിയുടെ കൂടെ ഗണ്യമായ വിലയും കോംപ്ലക്സിറ്റിയും കൂട്ടും ഇത് ബഹിരാകാശ എയറോനോട്ടിക്സ് വ്യവസായങ്ങളിൽ മാത്രം ആവശ്യമാണ് പല വ്യവസായങ്ങളും ലളിതവും കൃത്യതയില്ലാത്തതുമായ സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നത് തുടരുന്നു ഇതും അടിസ്ഥാന ഗവേഷണത്തിന്റെ ഒരു മേഖലയായി ക്രാക്ക് ക്ലോഷർ തുടരുന്നു ഒരു സൈക്കിളിലെ ക്രാക്കിന് മുമ്പുള്ള റെസിഡ്യൂവൽ സ്ട്രെസ് പ്ലാസ്റ്റിറ്റി ഇൻഡ്യൂസ്ഡ് ക്രാക്ക് ക്ലോഷർ അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാമോ പുതിയ ഫിനോമിനകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് വിലകുറഞ്ഞ് വരുന്നില്ല ഇത് ഒരു അധിക ചിലവിൽ വരുന്നു ഇപ്പോൾ നമ്മൾ എന്തുചെയ്യും നമ്മൾ പോയി മനസിലാക്കാൻ ശ്രമിക്കും എന്താണ് ക്രാക്ക് ക്ലോഷർ ക്രാക്ക് ക്ലോഷറിന് വിവിധ വിഭാഗങ്ങളുണ്ട് നമ്മൾ ആദ്യം കാണുന്നത് പ്ലാസ്റ്റിറ്റി ഇൻഡ്യൂസ്ഡ് ക്രാക്ക് ക്ലോഷർ നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ ആശയം എന്താണ് സൈക്കിളിലെ ക്രാക്കിന് മുമ്പുള്ള റെസിഡ്യൂവൽ സ്ട്രെസ് ഇവിടെ ഒരു ചെറിയ രീതിയിൽ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു സിനുസോയ്ഡൽ ലോഡ് ഉള്ളപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ 0 മുതൽ മാക്സിമം വരെ പോകുന്ന കർവിന്റെ ഒൺ ഹാഫിലേക്കാണ് നോക്കുന്നത് അതിനാൽ ഞാൻ 0 മുതൽ മാക്സിമം വരെ പോകുമ്പോൾ നമ്മൾ കാണും ക്രാക്ക് ടിപ്പിൽ എന്ത് സംഭവിക്കും എന്നത് അതിനാൽ നിങ്ങൾ 0 മുതൽ മാക്സിമം വരെ പോയി താഴേക്ക് വരിക ഇതിന്റെ പരമാവധി രേഖാചിത്രങ്ങൾ വരയ്ക്കുക അതിനാൽ എനിക്ക് ഇത് ക്രാക്കായി ഉണ്ട് എനിക്ക് ആക്സിസ് r ആയി ഉണ്ട് ഇതാണ് ഡിസ്റ്റൻസ് അളക്കുന്നത് നിങ്ങൾക്കുള്ള ഈ ആക്സിസിൽ സ്ട്രെസ് അടയാളപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ട്രെസ്ക് യിൽഡ് ക്രൈറ്റീരിയ ഉണ്ട് ഞാൻ ഇത് സിഗ്മ x എന്ന് അടയാളപ്പെടുത്തി അതിനാൽ ഇത് ഹോറിസോൺണ്ടൽ ആയിരിക്കും ക്രാക്ക് ആക്സിസിൽ ഇതിന്റെ ചില വേരിയേഷനുകൾ ഉണ്ടാകും നമ്മൾ ഇതിനകം കണ്ടു മോഡിന്റെ കാര്യത്തിൽ പ്ലാസ്റ്റിക് സോൺ ഇതുപോലെ ആയിരിക്കും നീലനിറത്തിൽ കാണിക്കുന്നത് ഇലാസ്റ്റിക്കലി ഡിഫോർമിഡ് നെയ്ബർഹുഡുകൾ ആണ് സ്ലൈയിറ്റ് ലൈറ്റ് ബ്രൌൺ നിറം പ്ലാസ്റ്റിക്കലി ഡിഫോർമിഡ് മെറ്റീരിയലുകളെ കാണിക്കുന്നു അതിനാൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഒരു ക്രാക്കിന്റെ സാന്നിധ്യം കാരണം നിങ്ങളുടെ എക്സ്റ്റെനൽ ലോഡിംഗ് വളരെ ചെറുതാണെങ്കിലും ലോഡ് ക്രമേണ 0 മുതൽ പീക്ക് വരെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രാക്ക് ടിപ്പിന് സമീപം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും അതിനാൽ ലോഡുചെയ്യുമ്പോൾ ഇത് സംഭവിക്കുന്നു നമ്മുടെ ശ്രദ്ധ എന്താണ് നമ്മൾ കാണേണ്ടത് ഒരു സൈക്കിളിലെ ക്രാക്കിന് മുമ്പുള്ള റെസിഡ്യൂവൽ സ്ട്രെസ് എന്താണ് ഇതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഒരു വിർജിൻ മെറ്റീരിയൽ മാത്രമാണ് നോക്കുന്നത് നമ്മൾ ഇത് ആദ്യമായി ലോഡുചെയ്തു നിങ്ങൾക്ക് ഒരു ഇലാസ്റ്റിക് റീജിയണിന് ചുറ്റും ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ട് ഞാൻ ലോഡ് കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും അൺലോഡു ചെയ്യൽ നടക്കുന്നു ഇലാസ്റ്റിക് റീജിയണിന് എന്ത് സംഭവിച്ചാലും അത് അതിന്റെ ഒറിജിനൽ പോസിഷനിലേക്ക് മടങ്ങും ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഇല്ലെങ്കിൽ സ്പ്രിംഗ് ബാക്ക് യൂണിഫോം ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിന് സമീപം പ്ലാസ്റ്റിക്കലി ഡിഫോർമിഡ് സോൺ ഉള്ളതിനാൽ ഇലാസ്റ്റിക് റിക്കവറി പോയി ഈ സോണിനെ കംപ്രസ് ചെയ്യും ചിത്രപരമായി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സോൺ ഉണ്ടാകും ഇത് ഇപ്പോഴും പ്ലാസ്റ്റിക് സോൺ കണ്ടീഷനിൽ വളരെ ചെറുതാണ് കാരണം നെയ്ബർഹുഡിന്റെ ഇലാസ്റ്റിക് റിക്കവറി ആണ് ചുരുക്കത്തിൽ ഒരു സൈക്കിളിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് റെസിഡ്യൂവൽ സ്ട്രെസ് ഉണ്ടാകും ഈ ആശയം നിങ്ങൾക്കറിയാം നിങ്ങൾ അഭിനന്ദിക്കേണ്ടതുണ്ട് ഒരു സൈക്കിളിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് റെസിഡ്യൂവൽ സ്ട്രെസ് പാറ്റേൺ ഉണ്ടാകും അത് ക്രാക്ക് ടിപ്പിന് സമീപം കംപ്രസ്സുചെയ്യുകയും മുന്നിലുള്ള ടെൻഷൻ ഉണ്ടാക്കുകയും ചെയ്യും നമുക്ക് നോക്കാം എന്താണ് സ്റെപ്പുകൾ ലോഡ് റിലീസ് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് സോൺ തിരിച്ചു വരുന്നു ഈ പ്രക്രിയയിൽ പ്ലാസ്റ്റിക്കലി ഡിഫോർമിഡ് പോർഷനിൽ ഒരു കംപ്രസ്സീവ് ലോഡ് അവതരിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് റെസിഡ്യൂവൽ കംപ്രസ്സീവ് സ്ട്രെസും റെസിഡ്യൂവൽ ടെൻഷനും ഉണ്ടാകും നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഇത് മനസിലാക്കുന്നുവെങ്കിൽ മറ്റ് പല ചർച്ചകളും ഓവർലോഡ് ഉണ്ടാകുമ്പോൾ എന്തുസംഭവിക്കും ഒരു ക്രാക്ക് ക്ലോഷർ ചെയ്താൽ എന്ത് സംഭവിക്കും ഇവയ്ക്കെല്ലാം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് കാരണം ലോഡ് വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിന് മുന്നോടിയായി ഒരു റെസിഡ്യൂവൽ സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ആദ്യത്തെ അറിവാണിത് അതിനാൽ ഞാൻ എന്തുചെയ്യും ഞാൻ ഈ ആനിമേഷൻ വീണ്ടും പ്ലേ ചെയ്യും നിങ്ങൾ ഈ സ്കെച്ച് കഴിയുന്നത്ര ശ്രദ്ധാപൂർവ്വം വരയ്ക്കുക നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്ന ആനിമേഷൻ നമ്മൾ വീണ്ടും പ്ലേ ചെയ്യും ലോഡ് 0 ൽ നിന്ന് പീക്ക് വാല്യൂവിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുസംഭവിക്കും അതിനാൽ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ടാകും ഇതാണ് ഇലാസ്റ്റിക് റീജിയൻ ഇലാസ്റ്റിക് റീജിയനാൽ ചുറ്റപ്പെട്ട ക്രാക്ക് ടിപ്പിലെ പ്ലാസ്റ്റിക് സോണിന്റെ ഏകദേശ ഷേയ്പ്പ് ആണിത് ഇത് സ്കീമാറ്റിക് ആണ് ക്രാക്കിന് ചുറ്റുമുള്ള ഒരു സർക്കിൾ മാത്രമാണ് ഇലാസ്റ്റിക് എന്ന് ചിന്തിക്കരുത് ഇല്ല അത് അങ്ങനെയല്ല വിഷ്വലൈസേഷൻ പർപ്പസ്സിനായി മാത്രം ആണ് നമുക്ക് അനുഭവപ്പെടുന്നത് അത് എന്തെങ്കിലും പോയി കംപ്രസ്സ് ചെയുന്നു എന്നതാണ് നിങ്ങൾക്കറിയാം വിഷ്വലൈസേഷൻ വളരെ നല്ലതാണെന്ന് ഞാൻ നീല നിറത്തിൽ എന്തെങ്കിലും കാണിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ലോഡ് കുറയ്ക്കാൻ പോകുന്നു ലോഡ് 0 ൽ നിന്ന് പീക്ക് ലോഡിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു ഇതാണ് സ്റ്റോറി ഈ പ്ലാസ്റ്റിക് സോൺ ടെൻഷന് വിധേയമാണ് ഇത് സിഗ്മ ys ന്റെ വാല്യൂവാണ് ഇലാസ്റ്റിക് സ്പ്രിംഗ് ബാക്ക് ലഭിക്കുമ്പോഴും ലോഡ് കുറയുമ്പോഴും നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് സോൺ ഉണ്ട് അവിടെ സ്ട്രെസ് മൈനസ് സിഗ്മ ys ആണ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കംപ്രഷൻ ഉണ്ട് തുടർന്ന് റെസിഡ്യൂവൽ ടെൻഷനും ഉണ്ട് നിങ്ങൾ ഇത് മനസിലാക്കുന്നുവെങ്കിൽ നമ്മുടെ ഭാവിയിലെ എല്ലാ ചർച്ചകളും എളുപ്പമാകും ഇപ്പോൾ നിങ്ങൾ കാണണം എനിക്ക് ഒന്നിലധികം സൈക്കിളുകൾ ഉണ്ടെങ്കിൽ ക്രാക്ക് ഒരു പ്ലാസ്റ്റിക് വേക്ക് വഴി പോകും അതും നമ്മൾ കാണും എനിക്ക് വളരെ നല്ലൊരു കൂട്ടം ആനിമേഷനുകൾ ഉണ്ട് അതിലൂടെ നമ്മൾ കാണും ഒരു ഗ്രോയിങ്ങ് ഫാറ്റിഗ്ഗ് ക്രാക്കിൽ ക്രാക്ക് ടിപ്പിന് പിന്നിൽ ഒരു പ്ലാസ്റ്റിക് വേക്ക് വികസിപ്പിച്ചെടുക്കുന്നു നിങ്ങൾക്കറിയാമോ എനിക്ക് ഇനിഷ്യൽ ക്രാക്ക് ലെങ്ത് ഉണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സൈക്ലിക്ക് ലോഡിംഗ് ഉണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒരു സൈക്കിളിന്റെ അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നു നിരവധി സൈക്കിളുകൾക്ക് ശേഷം എന്ത് സംഭവിക്കും നിങ്ങൾക്കറിയാമോ ക്രാക്ക് ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് വേക്ക് അതിനാൽ ക്രാക്ക് ലെങ്ത് കൂടിക്കൊണ്ടിരിമ്പോൾ പ്ലാസ്റ്റിക് സോൺ ഷെയിപ്പും വളരുന്നു ഇത് ഒരേ വലുപ്പത്തിൽ തുടരാൻ പോകുന്നില്ല ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ആനിമേഷനിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങൾ അത് നിരീക്ഷിക്കുന്നു സഫിഷ്യന്റ് ഡിസ്റ്റൻസിലേക്കാണ് ഇത് ചെയ്യുന്നത് പ്ലാസ്റ്റിക്ക് ഡീഫോർമിഡ് പോർഷനിലൂടെയാണ് ക്രാക്ക് കടന്നുപോകുന്നത് അതിനെ പ്ലാസ്റ്റിക് വേക്ക് എന്ന് വിളിക്കുന്നു എൽബർ നിർദ്ദേശിച്ചതെന്തെന്നാൽ ക്രാക്ക് ക്ലോഷറിനു കാരണം പ്ലാസ്റ്റിക് വേക്കിൽ അവശേഷിക്കുന്ന റെസിഡ്യൂവൽ സ്ട്രെയിൻ ആണ് നോക്കൂ ഫാറ്റിഗ്ഗ് ലോഡിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിഡ്യൂവൽ സ്ട്രെസ് ഫോർമേഷൻ ഉണ്ടാകില്ല ലോഡ് ഇൻക്രിസും ഡിക്രിസും ചെയ്യുന്നതിനാൽ റെസിഡ്യൂവൽ സ്ട്രെസ് ഫോർമേഷൻ ഉണ്ടാകുന്നു റെസിഡ്യൂവൽ സ്ട്രെസ് കാരണം ക്രാക്ക് അതിലൂടെ കടന്നു പോകേണ്ടതുണ്ട് പ്ലാസ്റ്റിക് വേക്കിൽ റെസിഡ്യൂവൽ സ്ട്രെയിൻ നിലനിൽക്കുന്നതിനാൽ ക്രാക്ക് ക്ലോസ് ആകുന്നു എങ്ങനെയെന്ന് നമ്മൾ കാണും അത് വിശദീകരിക്കുന്ന ഒരു ആനിമേഷൻ എനിക്കുണ്ട് എന്നാൽ നിങ്ങൾ തിരിച്ചറിയണം ക്രാക്ക് വളരുന്തോറും പ്ലാസ്റ്റിക് സോൺ സൈസും ഇൻക്രിസ് ചെയ്തു കൊണ്ടിരിക്കുന്നു കൂടാതെ പ്ലാസ്റ്റിക് വേക്ക് ഫോർമേഷനും ഇത് നിങ്ങളുടെ സൈക്ലിക്ക് ലോഡിംഗിനൊപ്പം പോകുന്നു അതാണ് ചുവടെ ചിത്രീകരിച്ചിരിക്കുന്നത് വ്യത്യസ്ത തരം ക്രാക്ക് ക്ലോഷർ നിങ്ങൾക്കറിയാമോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഒരു ഓസിലെഷൻ ഉണ്ടെന്ന് അതിനാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് വേഗത്തിൽ സൂം ചെയ്യാൻ കഴിയും എന്നതാണ് അതിനാൽ നിങ്ങൾ കാണും ഞാൻ ഒരു ക്രാക്കിഡ് സ്പെസിമെൻ ഇത്തരത്തിലുള്ള ലോഡിംഗിന് ശേഷം നോക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ക്രാക്ക് എഡ്ജസിലുള്ള ഒരു സ്ട്രിപ്പ് മെറ്റീരിയൽ ലോഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷന് വിധേയമായിട്ടുണ്ട് മുമ്പ് അത് പ്ലാസ്റ്റിക് വേക്ക് ആണ് നമ്മൾ ഇത് മുമ്പത്തെ സ്ലൈഡിൽ കണ്ടു ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എനിക്ക് ഒരു സൈക്ലിക്കൽ ലോഡിംഗ് ഉണ്ട് ഈ ഘട്ടത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ഞാൻ ചർച്ചചെയ്യുന്നു അതായത് കുറച്ച് സൈക്കിളുകൾക്ക് ശേഷം പീക്ക് ലോഡിൽ ക്രാക്കിന്റെ കഥ ഇങ്ങനെയായിരിക്കും എനിക്ക് ഒരു ക്രാക്ക് പൂർണ്ണമായും തുറക്കുമായിരുന്നു പക്ഷേ അതിന് ഒരു പ്ലാസ്റ്റിക് വേക്ക് ഉണ്ടാകും ക്രാക്ക് എഡ്ജസിലുള്ള ഒരു സ്ട്രിപ്പ് മെറ്റീരിയൽ ലോഡുചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷന് വിധേയമായിട്ടുണ്ട് മുമ്പ് അത് പ്ലാസ്റ്റിക് വേക്ക് ആണ് അതിനാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വേക്ക് കാണിച്ചിരിക്കുന്നു ഞാൻ ലോഡ് കുറയ്ക്കുന്നുവെന്ന് കരുതുക എന്ത് സംഭവിക്കും ക്രാക്ക് ലിപ്സിന്റെ പേർമനൻറ് ഇലോങേഷൻ കാരണം ലോഡ് കുറയുമ്പോൾ ലോഡ് 0 ആകുന്നതിന് മുമ്പ് അവ ക്ലോസ് ചെയ്യുന്നു അതിനാൽ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ലോഡ് പോയിന്റ് ഇതിലേക്ക് വരുമ്പോൾ മാത്രം സ്ട്രെസ്സിന്റെ വാല്യൂ 0 ആണ് എന്നാൽ ഈ ഘട്ടത്തിൽ പോലും ക്രാക്ക് ക്ലോസ് ചെയ്യുന്നതായി നിങ്ങൾ കാണുന്നു അതിനാൽ ഇഫക്റ്റീവ് SIF ഈ പോയിന്റിൽ നിന്ന് ഇതിലേക്ക് കണക്കാക്കേണ്ടതുണ്ട് ഇതിന് 0 മുതൽ K മാക്സിമം വരെ പോകാൻ കഴിയില്ല അതിനാൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണിത് അതിനാൽ നിങ്ങൾ ശരിക്കും നോക്കുന്നത് സൈക്ലിക്കൽ ലോഡിംഗ് കാരണം ലോഡ് ഇൻക്രിസും ഡിക്രിസും ചെയ്താൽ റെസിഡ്യൂവൽ സ്ട്രെസ് ഫോർമേഷൻ ഉണ്ടാകും എനിക്ക് ഇതുപോലുള്ള ഒന്നിലധികം സൈക്കിളുകൾ ഉണ്ടെങ്കിൽ ക്രാക്ക് പ്ലാസ്റ്റിക് വേക്ക് വഴി പോകണം ലോഡ് 0 എത്തുന്നതിനുമുമ്പ് പ്ലാസ്റ്റിക് വേക്ക് ക്രാക്ക് ഫേയിസ്സ് ക്ലോസ് ചെയ്യുന്നു അതിനാൽ ലോഡിംഗിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ക്രാക്ക് അനുഭവപ്പെടുകയുള്ളൂ അതിനാലാണ് നമുക്ക് K ഇഫക്റ്റീവ് ഉള്ളത് ഇതാണ് എൽബർട്ട് നിർദ്ദേശിച്ച മോഡൽ പിന്നീട് സമാനമായ മോഡലുകൾ വിവിധ സാഹചര്യങ്ങളിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് ലോഡ് അതിന്റെ പീക്കിൽ ക്രാക്ക് പൂർണ്ണമായും ഓപ്പൺ ആകുന്നു ലോഡ് 0 ൽ എത്തുന്നതിനു മുമ്പുതന്നെ ക്രാക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രശ്നമാണിത് ഇത് വിശദീകരിക്കുന്നത് ക്രാക്ക് ക്ലോഷർ ഫിനോമിനൻ എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് നിങ്ങൾക്ക് ആനിമേഷൻ വീണ്ടും കാണാൻ കഴിയും ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വേക്ക് ഉണ്ട് എന്താണ് പ്ലാസ്റ്റിക് വേക്ക് എന്ന് ഇത് വിശദീകരിക്കുന്നു ലോഡ് കുറയുമ്പോൾ ഇത് കാണിക്കുന്നു ലോഡിന് ഇപ്പോഴും ചില വാല്യൂ ഉള്ളപ്പോൾ ക്രാക്ക് അടച്ചിരിക്കുന്നു നിങ്ങൾക്ക് പൂജ്യം ലോഡിൽ ടിപ്പിക്കലി റെസിഡ്യൂവൽ സ്ട്രെസ് പാറ്റേണും ഉണ്ട് ഇത് നിങ്ങൾക്കായി വലുതാക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽഎനിക്ക് ഇത് ക്ലോഷർ സ്ട്രെസ്സുകളായി ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ റെസിഡ്യൂവൽ ടെൻഷൻ ഉണ്ട് ഇക്കാരണത്താൽ ക്രാക്ക് സർഫേസ്സ്സ് ക്ലോസ് ചെയ്യുന്നു ഇത് വഴി നിങ്ങളുടെ da ബൈ dN കാൽക്കുലേഷന് അപ്പ്പ്രോപ്രിയേറ്റ് മോഡൽ ആക്കേണ്ടതുണ്ട് അടുത്ത സ്ലൈഡിൽ അതാണ് നൽകിയിരിക്കുന്നത് ഇത് കണക്കിലെടുക്കുമ്പോൾ K എന്നത് K ഓപ്പണിംഗിൽ എത്തുന്നതുവരെ ക്രാക്ക് ഫേയിസ്സ് ക്ലോസ് ആയിരിക്കുന്നു നിങ്ങൾ ഇതിനകം ഈ ഗ്രാഫ് വരച്ചു നിങ്ങൾ ഡെൽറ്റ K ഇഫക്റ്റീവ് ഉപയോഗിക്കണമെന്ന് പറയാൻ വേണ്ടിയാണിത് ഇത് നമ്മൾ കണ്ടു നിങ്ങൾ റാൻഡം ലോഡുചെയ്യുമ്പോൾ ഇത് പ്രാധാന്യമർഹിക്കുന്നു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ലോഡിംഗിനായി ഒരുപക്ഷേ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം ബഹിരാകാശ സ്ട്രക്ച്ചറുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീർച്ചയായും എൽബറിന്റെ റെക്കമെൻറ്റേഷൻ ചെയ്യേണ്ടിവരും ഇതിന് ചിലവ് വരുന്നു ഇത് വിലകുറഞ്ഞതല്ല നിങ്ങൾ ഇത് വിലമതിച്ചുകഴിഞ്ഞാൽ സിമിലർ ലോജിക്കൽ ഫ്രെയിം വർക്ക് മനസിലാക്കാൻ മറ്റ് മോഡലുകളും നൽകിയിട്ടുണ്ട് അവ എളുപ്പമാണ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ കാരണം ക്രാക്ക് ക്ലോഷർ സംഭവിക്കാം അപ്പ്ലൈഡ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഒരു ഫേസ് ട്രാൻസ്ഫോർമേഷന്റെ ഫലമായി പ്രൊഡ്യൂസ് ചെയ്ത റെസിഡ്യൂവൽ സ്ട്രെയിൻ ക്രാക്ക് ക്ലോഷറിന് കാരണമാകുന്നു ഫിസിക്കൽ ഫിനോമിനന്റെ അപ്പ്രീസിയേഷൻ പ്ലാസ്റ്റിറ്റി ഇൻഡ്യൂസ്ഡ് കേസുമായി വളരെ സിമിലർ ആണ് പ്ലാസ്റ്റിക് വേക്ക് എന്നതിനുപകരം ഇതെല്ലാം ഫേസ് ട്രാൻസ്ഫോർമേഷ കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു അല്ലെങ്കിൽ രണ്ടും തമ്മിൽ കംപാരിസൺ ഉണ്ട് അതാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇത് പ്ലാസ്റ്റിറ്റി ഇൻഡ്യൂസ്ഡ് ക്രാക്ക് ക്ലോസറിന് സമാനമാണ് ഇവിടെ വീണ്ടും കുറച്ച് സൈക്കിളുകൾക്ക് ശേഷം പീക്ക് ലോഡിൽ നിങ്ങൾ നോക്കുന്നു പീക്ക് ലോഡിൽ ക്രാക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്നു പ്ലാസ്റ്റിക് വേക്കിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഇവിടെ ഷേഡിംഗ് വ്യത്യസ്തമാണ് എന്നാൽ ചിത്രങ്ങൾ പ്രധാനമായും സമാനമാണ് ഇത് സംഭവിക്കുന്നത് ഫേസ് ട്രാൻസ്ഫോർമേഷൻ കാരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 0 എത്തുന്നതിനുമുമ്പ് ലോഡ് കുറയുമ്പോൾ ക്രാക്ക് ക്ലോസ് ആയിരിക്കും ഫേസ് ട്രാൻസ്ഫോർമേഷൻ കാരണമാണ് ഇത് അതിനാൽ അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിനാൽ എൽബർട്ട് നിർദ്ദേശിച്ച ക്രാക്ക് ക്ലോഷർ എന്ന ആശയം ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റ് നിരവധി സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിലൊന്ന് പ്ലാസ്റ്റിറ്റി ഇൻഡ്യൂസ്ഡ് ആണ് ഇവിടെയും ഫേസ് ട്രാൻസ്ഫോർമേഷൻ കാരണമാണ് മൂന്നാമത്തെ കേസ് വെഡ്ജ് ഇൻഡ്യൂസ്ഡ് ക്രാക്ക് ക്ലോസറാണ് ഇത് അഗ്ഗ്രെസ്സിവ് എൻവയറോണ്മെന്റുമായി ബന്ധപ്പെട്ട ഓക്സൈഡ് കാരണമാകാം കോറോഷൻ പ്രോഡക്ട്സ് ക്രാക്ക് ഫേയിസെസ്സിനു ഇടയിൽ വെഡ്ജ്ഡ് ആകുന്നു ഇവിടെ അതാണ് കാണിക്കുന്നത് എനിക്ക് ഇത് കുറച്ച് വലുതായി കാണിക്കാൻ കഴിയും കോറോസീവ് ആക്ഷൻ കാരണം നിങ്ങൾക്ക് കോറോഷൻ പ്രോഡക്ട്സ് കാണിച്ചിരിക്കുന്നു ലോഡ് കുറയുമ്പോൾ നിങ്ങൾക്കറിയാം കോറോഷൻ പ്രോഡക്ട്സ് കാരണം ക്രാക്ക് ക്ലോസ് ചെയ്തതായി തോന്നുന്നു ഇത് ക്രാക്ക് ക്ലോഷറിന് സമാനമായ ഇഫെക്ട് ഉണ്ടാക്കുന്നു ഇതിനെ ഓക്സൈഡ് ഇൻഡ്യൂസ്ഡ് ക്ലോഷർ എന്ന് വിളിക്കുന്നു അതിനാൽ അഗ്ഗ്രെസ്സിവ് എൻവയറോണ്മെന്റിൽ ഇത് കാണപ്പെടുന്നു എല്ലാ കേസുകളിലും ക്രാക്ക് ക്ലോഷറിനെക്കുറിച്ച് ചർച്ചചെയ്യുമ്പോൾ നമ്മൾ സൈക്ലിക്ക് ലോഡിംഗ് കാണിക്കുന്നു പീക്ക് ലോഡിൽ എന്ത് സംഭവിക്കും ലോഡ് കുറയുമ്പോൾ എന്തുസംഭവിക്കും ഒപ്പം ക്രാക്ക് ഫേയിസ്സ് ക്ലോസ് ആയിരിക്കുമ്പോൾ അതിനാൽ ഇടതുവശത്ത് നൽകിയിട്ടുള്ളതും വലതുവശത്ത് നൽകിയിട്ടുള്ളതും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് ഇടത് ലോഡിംഗ് കാണിക്കുന്നു ലോഡിംഗ് ഹിസ്റ്ററിയിൽ ഗ്രീൻ പോയിന്റ് കാണിക്കുന്നത് നമ്മൾ ഏത് പോയിന്റിൽ ക്രാക്ക് ഫേയിസ്സ് നോക്കണം എന്നതാണ് ഇത് പീക്ക് ലോഡിലാണ് ഇത് റെഡ്യൂസ്ഡ് ലോഡിലാണ് തുടർന്ന് നിങ്ങൾക്ക് റഫ്നെസ്സ് ഇൻഡ്യൂസ്ഡ് ക്ലോഷറും ഉണ്ട് ഇത് മറ്റൊരു പ്രതിഭാസമാണ് ഫാറ്റിഗ്ഗ് ഫ്രാക്ചർ സർഫേസിന്റെ മൈക്രോസ്കോപ്പിക്ക് റഫ്നെസ്സ് ആണ് ഇതിനു കാരണം എന്നാണ് റിപ്പോർട്ടു ചെയ്തത് മൈക്രോസ്കോപ്പിക് ലെവലിൽ മൈക്രോ സ്ട്രക്ചറൽ ഹെറ്ററോജെനിറ്റി കാരണം മിക്സഡ് മോഡ് കണ്ടിഷൻസ് എക്സിസ്റ് ചെയ്യുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരിക്കൽ ഇവിടെയെത്തിയാൽ നിങ്ങൾക്ക് ആവശ്യമായ ഭൌതിക ശാസ്ത്ര പരിജ്ഞാനംആവശ്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഇതെല്ലാം അതിശയോക്തി കലർന്ന ചിത്രങ്ങളാണ് അതിനാൽ നിങ്ങൾ എന്തിനാണ് ക്രാക്ക് ഫേയിസെസ്സ് ജാഗ്ഡ് ആയത് എന്ന് വന്ന് പറയരുത് അത്തരം ഉയർന്ന മാഗ്നിഫിക്കേഷനിൽ ഒരു സ്ട്രൈയിറ്റ് എഡ്ജിൽ പോലും ജാഗ്ഡ് ആയി മാത്രം കാണപ്പെടും അതിനാൽ നിങ്ങൾ നോക്കണം ഇവ മാക്രോസ്കോപ്പിക് ചിത്രങ്ങളല്ല വളരെ വലുതാക്കിയ മൈക്രോസ്കോപ്പിക് ചിത്രങ്ങൾ ആണ് അതാണ് നിങ്ങൾ നോക്കേണ്ട രീതി കൂടാതെ പരാമർശിച്ചിരിക്കുന്ന കാര്യം മോഡ് II മൂലമുള്ള ഡിസ്പ്ലേസ്മെന്റ് മുകളിലെയും താഴത്തെയും ക്രാക്ക് ഫേയിസെസ് തമ്മിലുള്ള മിസ്മാച്ച് ക്രാക്ക് ക്ലോഷർ ഫിനോമിനയ്ക്ക് കാരണമാകുന്നു അതും നമ്മൾ ഒരു ചിത്രമായി കാണും ഇവിടെ വീണ്ടും നിങ്ങൾ ലോഡ് ഹിസ്റ്ററി കാണുന്നു നിങ്ങൾ പീക്ക് ലോഡിൽഅത് നോക്കുകയാണ് നിങ്ങൾക്ക് റെഡ്യൂസ്ഡ് ലോഡിൽ ഇതുപോലുള്ള ഒരു ചിത്രം ഉണ്ട് ഞാൻ കരുതുന്നു എനിക്ക് ഇത് നിങ്ങൾക്കായി വലുതാക്കാം ഇതിനെ മോഡ് II ഇൻഡ്യൂസ്ഡ് ക്ലോഷർ എന്ന് വിളിക്കുന്നു ഈ മോഡ് II ലോഡിംഗ് മൈക്രോസ്കോപ്പിക് തലത്തിലാണ് വരുന്നത് അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം ക്രാക്ക് ക്ലോഷർ ഒരു അക്സപ്റ്റഡ് ഫിനോമിനയാണ് തുടക്കത്തിൽ ഇത് അംഗീകരിച്ചില്ലെങ്കിലും പിൽക്കാല ആളുകൾ അതിന്റെ റോൾ തിരിച്ചറിഞ്ഞു മറ്റ് പല മെക്കാനിസങ്ങളും ആളുകൾ നിരീക്ഷിക്കുകയും വർഗ്ഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ അത്തരം എല്ലാ സാഹചര്യങ്ങളിലുംഡെൽറ്റ K ഇഫക്റ്റീവ് എങ്ങനെ കണ്ടെത്താം എന്ന ഒരു മെത്തഡോളജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതിനാൽ നിങ്ങൾ കൂടുതൽ പരിശോധനകൾ നടത്തുകയും ലിറ്ററേച്ചറിൽ നോക്കുകയും ചെയ്ത് ഡെൽറ്റ K ഇഫക്റ്റീവ് എങ്ങനെ എന്ന് കണ്ടെത്തുകയും വേണം അപ്പോൾ മാത്രമേ da ബൈ dN കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് ക്രാക്ക് ക്ലോഷർ മോഡൽ ഉപയോഗിക്കാൻ കഴിയും നോക്കൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട് എനിക്ക് ഓവർലോഡ് ഉണ്ടെന്ന് കരുതുക ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ നിന്ന് ഇത് പ്രയോജനകരമാണോ അല്ലയോ നോക്കൂ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ എന്റെ ആദ്യകാല ചർച്ചയിൽ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിറ്റി ഫ്രാക്ചർ മെക്കാനിക്സിന്റെ ഒരു സുഹൃത്താണ് ക്രാക്ക് ഗ്രോത്തിൽ ഓവർലോഡിന്റെ സ്വാധീനം വാസ്തവത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ വാദിക്കും ആളുകൾ ശ്രദ്ധിച്ചു നിങ്ങൾ ഇടയ്ക്കിടെ പ്രൂഫ് ടെസ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ സ്ട്രക്ച്ചറിന്റെ ലൈഫ് മെച്ചപ്പെടുത്താം പ്രൂഫ് ടെസ്റ്റിംഗിൽഅവർ എന്താണ് ചെയ്യുന്നത് ഡിസൈൻ ചെയ്ത ലോഡിന്റെ 125 ശതമാനം വരെ അവർ സ്ട്രക്ച്ചറിനെ ലോഡുചെയ്യുന്നു അതിനാൽ നിങ്ങൾ പീരിയോഡിക്കൽ ഇൻറ്റെർവെൽസിൽ ശരിക്കും ഒരു ഓവർലോഡ് ഇടുകയാണ് സ്ട്രക്ച്ചറിന്റെ ലൈഫിനെ ഇത് സഹായിച്ചിട്ടുണ്ടെന്ന് ആളുകൾ ആക്ച്വൽ പ്രാക്ടിസിൽ നിന്ന് നിരീക്ഷിച്ചു ഒപ്പം ഓവർലോഡ് സഹായിക്കുന്ന പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ബേയിസ്ഡ് പ്രൂഫ് നിങ്ങൾക്ക് ലഭിക്കും ഏത് തരത്തിലുള്ള ഓവർലോഡ് അത് മറ്റൊരു ചോദ്യമാണ് അതിനാൽ ഇതുപോലുള്ള ഒരു ഗ്രാഫ് നമ്മൾ നോക്കും X ആക്സിസ്സിൽ നിങ്ങൾക്ക് കിലോസൈക്കിളുകളുടെ എണ്ണം ഉണ്ട് Y ആക്സിസ്സിൽ ക്രാക്ക് ലെങ്ത് ഇടുന്നു ഇത് y ആക്സിസ്സിൽ ഒരു ലോഗ് ഗ്രാഫ് ആണ് തുടക്കത്തിൽ നിങ്ങൾ ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്യുഡ് എടുക്കും ഈ കേസിന്റെ ക്രാക്ക് ഗ്രോത്ത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇതിന് നിങ്ങൾക്ക് ചില നമ്പറുകളും നൽകിയിട്ടുണ്ട് ഇത് 48 MPa മുതൽ 113 MPa വരെ വ്യത്യാസപ്പെടുന്നു നിങ്ങൾ കണ്ടെത്തി ക്രാക്ക് ഗ്രോത്ത് ഇതുപോലെയാണ് കുറച്ച് സമയത്തിനുശേഷം എനിക്ക് ഒരു ഓവർലോഡ് ഉണ്ടെന്ന് കരുതുക അത് പോസിറ്റീവ് മുതൽ നെഗറ്റീവ് വരെ പോകുന്നു ഈ ഗ്രാഫിന്റെ ആവശ്യത്തിനായി ഇത് 188 MPa ടു മൈനസ് 28 MPa ലേക്ക് പോകുന്നു കൂടാതെ ക്രാക്ക് ഗ്രോത്ത് എങ്ങനെ കാണപ്പെടുന്നു അതിനാൽ ഒരു ഓവർലോഡ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ക്രാക്ക് ഗ്രോത്ത് റേറ്റ് തീർച്ചയായും നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആംപ്ലിറ്യുഡ് ഉണ്ടാകുമ്പോൾ കാണുന്നതിനേക്കാൾ ചെറുതാണ് എന്നാൽ സ്ട്രക്ച്ചറിന് ശരിക്കും ഗുണം ചെയ്തിട്ടില്ല പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രം എനിക്ക് ഓവർലോഡ് ഉള്ള മറ്റൊരു കേസ് എടുക്കാം ക്രാക്ക് ഗ്രോത്ത് റേറ്റ് എങ്ങനെ മാറുന്നു നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് പോസിറ്റീവ് ഡയറക്ഷനിൽ മാത്രം ഓവർലോഡ് ഉള്ളപ്പോൾ ക്രാക്ക് ഗ്രോത്തിൽ തീർച്ചയായും റിട്ടാർഡേഷൻ ഉണ്ടാകും എനിക്ക് ഇവിടെ മറ്റൊരു ഓവർലോഡ് ഉണ്ട് മറ്റൊരു ഓവർലോഡ് ഇവിടെ നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ചെയ്യുന്നത് എന്നിരുന്നാലും ഇത് പ്രയോജനകരമാണ് അതിനാൽ സ്ട്രസിന്റെ പീരിയോഡിക് പ്രൂഫ് ടെസ്റ്റിംഗിനെ എക്സ് പീരിയൻസിൽ നിന്ന് ആളുകൾക്ക് ലഭിച്ച ജ്ഞാനം അതിന്റെ ലൈഫിനെ സഹായിച്ചു ഫ്രാക്ചർ മെക്കാനിക്സ് കാഴ്ചപ്പാടിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ട് നമ്മൾ കാണാൻ പോകുന്ന വഴി പ്ലാസ്റ്റിക് സോൺ വളരെ വലുതായിരിക്കും എനിക്ക് ഓവർലോഡ് ഉള്ളപ്പോൾ പ്ലാസ്റ്റിക് സോൺ വളരെ വലുതായിരിക്കും അത് ഈ റിറ്റർഡേഷനെ സഹായിച്ചു അതിനാൽ നിങ്ങളുടെ പ്ലാസ്റ്റിക് സോണിന്റെ മോഡലിംഗ് വളരെ പ്രധാനമാണ് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈക്ലിക്കൽ ലോഡ് ഉള്ളപ്പോൾ ക്രാക്ക് ടിപ്പിന് മുമ്പായി നിങ്ങൾക്ക് റെസിഡ്യൂവൽ സ്ട്രെസ് ഉണ്ടാകും എനിക്ക് വല്ലപ്പോഴുമുള്ള ഓവർലോഡ് ഉള്ളപ്പോൾ എനിക്ക് വളരെ വലിയ പ്ലാസ്റ്റിക് സോൺ ഉണ്ടാകും ഈ ക്രാക്കിന് ആ പ്ലാസ്റ്റിക് സോണിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് അതിനാൽ ഒരർത്ഥത്തിൽ ക്രാക്ക് ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നു അതിന് നിങ്ങൾക്ക് ഒരു മോഡലുണ്ട് ഈ മോഡൽ വീലർ നിർദ്ദേശിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും വീണ്ടും പാരീസ് da ബൈ dN റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലേക്ക് കേർണൽ അദ്ദേഹം മടങ്ങും ഓവർലോഡിന്റെ ഇഫക്ട് ഉൾക്കൊള്ളുന്ന രീതിയിൽ മാറ്റം വരുത്തും ഫ്രാക്ചർ ലിറ്ററേച്ചറിൽ ഇത് വളരെ പ്രധാനമാണ് ക്രാക്ക് ഗ്രോത്തിൽ ഓവർലോഡിന്റെ സ്വാധീനം അതിനാൽ ഒരു ഗ്രാഫിൽ കോൺസ്റ്റന്റ് ആംപ്ലിറ്യുഡിൽ നിങ്ങൾ കാണുന്നു ക്രാക്ക് ഗ്രോത്ത് എങ്ങനെ സംഭവിക്കും റിവേഴ്സ്ഡ് ഓവർലോഡിനായി ഇത് എങ്ങനെയാണ് റിട്ടാർഡേഷൻ നടക്കുന്നത് ഒരു ദിശയിൽ ഓവർലോഡിനായി റിട്ടാർഡേഷൻ വളരെ പ്രധാനമാണ് അതിനാൽ ഈ ക്ലാസ്സിൽ എൽബർ നിർദ്ദേശിച്ച ക്രാക്ക് ക്ലോസറിനെക്കുറിച്ചുള്ള ആശയങ്ങൾ നമ്മൾ പ്രധാനമായും പരിശോധിച്ചിട്ടുണ്ട് ക്രാക്ക് ക്ലോസറിൽ അദ്ദേഹം എങ്ങനെയാണ് എത്തിയതെന്ന് നമ്മൾ കണ്ടു റിസൾട്ട് ആദ്യം സമൂഹം സ്വീകരിച്ചതെങ്ങനെ നിരന്തരമായ പരിശ്രമത്തിനുശേഷം ഈ പ്രതിഭാസങ്ങളെ അംഗീകരിക്കാൻ ഒരു ശാസ്ത്ര സമൂഹത്തെ സൌകര്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അഡ്വാൻസ്ഡ് ലൈഫ് എസ്റ്റിമേഷൻ കണക്കുകൂട്ടലുകളിൽ ഇപ്പോൾ ഇത് ഒരു പതിവായി മാറിയിരിക്കുന്നു ആളുകൾ അത് ഉൾച്ചേർത്തു നാസ്ഗ്രോ പോലുള്ള സോഫ്റ്റ്വെയറുകളും അത്തരം സോഫ്റ്റ്വെയറുകളും അവരുടെ ലൈഫ് എസ്റ്റിമേഷൻ കാൽകുലേഷന്റെ ഭാഗമായി ഇത് ഉപയോഗിക്കുന്നു